ഇന്ന് നമ്മൾ മാപ്പ് റെഡ്യൂസിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ചർച്ച ചെയ്യും മാപ്പ് റെഡ്യൂസൽ നമ്മൾ ഇതിനകം ചർച്ചചെയ്തു ഇന്ന് നമ്മൾ ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു മാപ്പ് റെഡ്യൂസ് പ്രശ്നമായി നമുക്ക് എങ്ങനെ ഒരു പ്രശ്നം വിഘടിപ്പിക്കാം അതിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നത് കാണാൻ ശ്രമിക്കും പാരല്ലെലിസഷൻ ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് സ്ലൈഡുകൾ കാണും നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതുപോലെ ഇത് ഗൂഗിളിൽ വികസിപ്പിച്ച ഒരു പ്രോഗ്രാമിംഗ് മോഡലാണ് പ്രധാനമായും ലാർജ് സ്കെയിൽ സെർച്ച് നടപ്പിലാക്കുക ലാർജ് സ്കെയിൽ സെർച്ചിൽ ഇത് ഗൂഗിൾ ആരംഭിച്ച ഒരു ലക്ഷ്യമായിരുന്നു പാരലൽ കംപ്യൂട്ടിങ്ങിലൂടെ പരാജയപ്പെട്ടാലും പ്രോസസ്സറുകളിലോ നെറ്റ്വർക്കിലോ പോലും ഒരു പരാജയം സംഭവിക്കുന്നിടത്തോളം അത് ഫോൾട് ടോളറൻറ് പുലർത്തണം അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തുടരണം അതായിരുന്നു അടിസ്ഥാന അനുമാനം അല്ലെങ്കിൽ അടിസ്ഥാനം ഇത് ചെയ്യുന്നതിന് മുൻകൂട്ടി വ്യവസ്ഥകൾ പറയാം അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഇവയായിരുന്നു അവ ഏറ്റെടുത്തത് അതിനാൽ ഹഡൂപ്പ് ലും മറ്റും ലഭ്യമാണ് അതിന്റെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ ഇത് പല പാരലൽ ആപ്പ്ളിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ഒരു പാരലൽ പ്രോഗ്രാമിങ് അബ്സ്ട്രാക്ഷൻ ആണ് ആയിരക്കണക്കിന് പ്രോസസ്സറുകൾ ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള കണക്കുകൂട്ടൽ നടത്തുന്നു നമ്മൾ വീണ്ടും അടിവരയിടുന്ന ഫോൾട് ടോളറൻറ് നടപ്പാക്കുന്നത് പോലെ തന്നെ ഡാറ്റ ഭാഗത്തും പ്രോസസ്സറിലും നെറ്റ്വർക്ക് ഭാഗത്തും എല്ലാം ഫോൾട് ടോളറൻറ്യാണ് രണ്ട് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് മാപ്പ് ഘട്ടമാണ് അതിനാൽ മാപ്പിംഗ് നോക്കാം തന്നിരിക്കുന്ന ഒരു പ്രശ്നം ഞാൻ രണ്ട് ഘട്ടങ്ങളായി വിഭജിക്കുന്നു ഒരു ഇന്റർമീഡിയറ്റ് ഫലത്തിലേക്ക് മാപ്പുചെയ്ത് a ആയി ചുരുക്കുന്നു വീണ്ടും പ്രവർത്തനം കുറയ്ക്കുക അല്ലെങ്കിൽ ഘട്ടം കുറയ്ക്കുക ആ ഇന്റർമീഡിയറ്റ് ഫലങ്ങൾ യഥാർത്ഥ ഫലങ്ങളിലേക്ക് കുറയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പാരലൽ എഫിഷ്യൻസി എണ്ണവും ആണ് അവ പ്രശ്നത്തെ അടിസ്ഥാനമാക്കി വർക്ക് നിയുക്തമാക്കിയിരിക്കുന്നു ഒരു മാസ്റ്റർ കൺട്രോളറിൽ ആകാം മറ്റ് തരത്തിലുള്ള കോഡിംഗ് ഭാഷകളും ആകാം ആ കോഡിംഗ് ഭാഗം ഏത് തരത്തിലുള്ള പ്രശ്നമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി എന്താണ് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ പ്രാഥമികമായി ഒരു തത്ത്വചിന്തയിൽ M മാപ്പറിന്റെ എണ്ണം ഒരു കൂട്ടം റിഡ്യൂസർ എന്നിവയുണ്ട് നിങ്ങൾക്ക് കാര്യത്തിലേക്ക് ഇന്റർമീഡിയറ്റ് ഫലങ്ങൾ ഉണ്ട് ഓരോ മാപ്പും ഓരോ മാപ്പറും ആണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മാസ്റ്റർ നൽകിയ ലൊക്കേഷനുകൾ ഉപയോഗിച്ച് ഗ്ലോബൽ ഫയൽ സിസ്റ്റത്തിൽ 1 M ഭാഗം വായിക്കുന്നു മാസ്റ്റർ കൺട്രോളർ നിങ്ങൾ വായിക്കേണ്ട ഭാഗങ്ങളാണിവയെന്ന് മാസ്റ്റർ നോഡിന്റെ കൺട്രോളർ പറയുന്നു മാപ്പ് ഫംഗ്ഷനിൽ ഒരു കീ മൂല്യ ജോഡിയിൽ നിന്ന് മറ്റൊരു കീ മൂല്യ ജോഡിയിലേക്കുള്ള പരിവർത്തനം അടങ്ങിയിരിക്കുന്നു ഇവിടെ പോലെ എനിക്ക് ഒരു k1 ഉണ്ട് v1 k2 v2 ലേക്ക് മാപ്പുചെയ്തു ഓരോ മാപ്പറും ഒരു റിഡ്യൂസറിന് ഒരു ഫയലിന്റെ കണക്കുകൂട്ടൽ ഫലങ്ങൾ എഴുതുന്നു R റിഡ്യൂസറുകൾ ഉണ്ടെങ്കിൽ ഇത് സാധാരണ തയ്യാറാക്കപ്പെടും ഒരു റിഡ്യൂസർ ഉണ്ടെങ്കിൽ ഓരോ റിഡ്യൂസറിനും ഒരു ഫയലിനായി ഇത് ഫലം തയ്യാറാക്കുന്നു ഉപയോക്താവിനായി സൃഷ്ടിക്കുന്ന ഒരു ഫയൽ ഫയലുകൾ ഒരു കീയിൽ സംഭരിച്ച് ഒരു കീ ഉപയോഗിച്ച് അടുക്കി ഒരു പ്രാദേശിക ഫയൽ സിസ്റ്റത്തിൽ സംഭരിക്കുന്നു മാപ്പറിന്റെ ഔട്ട്പുട്ട് ഈ ഫയലിന്റെ സ്ഥാനം മാസ്റ്റർ ട്രാക്ക് ചെയ്യുന്നു മാസ്റ്ററിന് കാര്യങ്ങളുടെ ട്രാക്കിംഗ് ഉണ്ട് റിഡ്യൂസർ ഘട്ടത്തിലോ കുറയ്ക്കുന്ന ഘട്ടത്തിലോ മാപ്പർ ഒരു റിഡ്യൂസറെ അറിയിക്കുന്നു അവിടെ ഭാഗിക കണക്കുകൂട്ടൽ കാരണം മാപ്പർ മുഴുവൻ പ്രക്രിയയുടെയും ഭാഗിക കണക്കുകൂട്ടൽ നടത്തി ബന്ധപ്പെട്ട മാപ്പർമാർക്കായി പ്രാദേശിക ഫയൽ സിസ്റ്റത്തിൽ സംഭരിച്ചിരിക്കുന്നു പ്രത്യേക റിഡ്യൂസറിനായി ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ബന്ധപ്പെട്ട മാപ്പർമാർക്കായി എം മാപ്പറുകൾ ഉണ്ട് റിഡ്യൂസർ റിമോട്ട് പ്രോസിജിയർ കാൾ ചെയ്യുന്നു ഫയലുകളെ ഫേസ് ഫലങ്ങൾ ഗ്രൂപ്പുചെയ്യുകയും ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു ചില ഫംഗ്ഷൻ എഫ് ഈ മൂല്യത്തിന് അനുയോജ്യമായ മൂല്യങ്ങളുടെ പട്ടിക നൽകുന്നു അതിനർത്ഥം എനിക്ക് നിങ്ങളെ k 2 v 2 പോലെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ചില k2 ലേക്ക് മാപ്പ് ചെയ്യുകയും ആ v2 ന്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു പ്രവർത്തനം ശരാശരി പോലെ ലളിതമാണെങ്കിൽ ആവൃത്തി അല്ലെങ്കിൽ എണ്ണം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില സങ്കീർണ്ണ പ്രവർത്തനങ്ങൾ ആണ് അതിനാൽ ഫലങ്ങൾ ഗൂഗിൾ ഫയൽ സിസ്റ്റത്തിലേക്ക് തിരികെ എഴുതുന്നതിനാൽ ഗൂഗിൾഫയൽ സിസ്റ്റം അവയെ പരിപാലിക്കുന്നു മാപ്പ് റിഡ്യൂസ് ഉദാഹരണം നൽകുന്നു 3 മാപ്പർമാരുണ്ട് 2 റിഡ്യൂസറുകളും മാപ്പ് ഫംഗ്ഷൻ ഈ സാഹചര്യത്തിലാണ് നമ്മുടേത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പത്തെ പ്രഭാഷണവും ചർച്ചയും നോക്കുകയാണെങ്കിൽ ഒരു വലിയ പദമുണ്ട് ഒപ്പം വാക്കിന്റെ എണ്ണം എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഓരോ മാപ്പറിനും ഡാറ്റാചങ്കുകൾ ഉണ്ട് ഈ മാപ്പറിന് ഡി 1 ഡി 2 ഡി 3 ഉണ്ട് ഇത് ഡി 4 ഡി 7 ഡി 8 തുടങ്ങിയവയാണ് അത് ഓരോ മാപ്പറും w 1 w 2 w 3 എന്നിങ്ങനെയുള്ള പദങ്ങളുടെ ഭാഗിക എണ്ണം ചെയ്യുന്നു രണ്ട് റിഡ്യൂസറുകളുണ്ട് ഇത് റിഡ്യൂസറിനായി ഫയൽ സൃഷ്ടിക്കുന്നു റിഡ്യൂസർ ഒന്ന് w1 w എന്നിവയ്ക്ക് ഉത്തരവാദിയാണ് ഉപയോക്താക്കൾ രണ്ട് w3 w4 എന്നിവയ്ക്കുള്ളതാണോ എന്ന് നമ്മൾ ഒരു പദത്തിന്റെ എണ്ണം കണക്കാക്കുന്നു ഇത് ചെയ്യുന്ന ഒരു മാപ്പിംഗ് ഫംഗ്ഷനുണ്ട് ഒപ്പം കുറയ്ക്കുന്ന ഒരു ഫംഗ്ഷനുമുണ്ട് ഇവിടെ അടിസ്ഥാനപരമായി ഫംഗ്ഷൻ എല്ലാ വാക്കുകൾക്കും ഈ എണ്ണം സംഗ്രഹിക്കുന്നതിനാണ് w1 അതിനാൽ ഇത് ഇതിനെ വിഭജിക്കുന്നത് ഒരു മാപ്പ് റെഡ്യൂസ് പ്രശ്നമായി കണക്കാക്കുകയും അവസാനത്തെ പ്രസംഗം അല്ലെങ്കിൽ അവസാന പ്രഭാഷണത്തിൽ ഇത് സിസ്റ്റത്തിൽ പാരലൽ എഫിഷ്യൻസി നൽകുമെന്ന് നമ്മൾ കാണിക്കുകയും ചെയ്തു നമ്മൾ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നോക്കുന്നു ഇത് കൃത്യമായി മാപ്പ് റിഡ്യൂസ് പ്രശ്നമല്ല ഹഡൂപ്പ് ഫയൽ സിസ്റ്റത്തിനോ ജിഎഫ്എസിനോ വേണ്ടി മാത്രം ഗൂഗിൾ ഫയൽ സിസ്റ്റം അതിനാൽ ബ്ലോക്ക് വലുപ്പം 64 MB ആണെങ്കിൽ ഈ ഫയൽ സിസ്റ്റങ്ങൾ ഒരിക്കലും സ്വാഭാവിക ഫയൽ സിസ്റ്റത്തേക്കാൾ വലിയ ചങ്ക് ബ്ലോക്ക് വലുപ്പമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ മറ്റൊരു കാര്യം ഡാറ്റയുടെ ഓരോ സംഭവത്തിനും മൂന്ന് പകർപ്പുകൾ ഉണ്ട് എന്നതാണ് മൂന്ന് റെപ്ലിക്ക ഉണ്ട് അവിടെ ഒരു ഫോൾട് ടോളറൻസ് മോഡ് നേടാൻ നിങ്ങളെ അനുവദിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ റീഡ് റൈറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ പ്രത്യേക കാര്യത്തിൽ എച്ച്ഡിഎഫ്എസ് ബ്ലോക്ക് വലുപ്പം 64 എംബി ആണെങ്കിൽ നമ്മൾ അത് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു 64 കെ 65 എംബി കെബി എംബി 127 MB എന്നിവയുടെ മൂന്ന് ഫയലുകൾ ഉണ്ട് എച്ച്ഡിഎഫ്എസ് ഫ്രെയിംവർക് ഉപയോഗിച്ച് എത്ര ബ്ലോക്കുകൾ സൃഷ്ടിക്കാം 64 കെ എത്ര ബ്ലോക്ക് സൃഷ്ടിക്കും 65 എംബി ഉപയോഗിച്ച് നമ്മൾക്ക് 2 ഉണ്ട് കാരണം 64 MB വരെ 1 127 MB എന്നിവയും ആകെ 5 എന്നാൽ വാസ്തവത്തിൽ തനിപ്പകർപ്പുകൾ ഉള്ളതിനാൽ സാധാരണയായി 3 പകർപ്പുകൾ ഉണ്ട് അതിനാൽ ഫലപ്രദമായ ബ്ലോക്ക് വലുപ്പം 5 മുതൽ 3 വരെ തുല്യമായിരിക്കും ഈ ബ്ലോക്കുകളുടെ അതിൽ സങ്കീർണ്ണതയില്ല എനിക്ക് വ്യത്യസ്ത തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരിട്ട് കണക്കാക്കാം വീണ്ടും ഒന്നും ചെയ്യാനില്ല മാപ്പ് റെഡ്യൂസുമായി ഉടനടി ഒരു ബന്ധവുമില്ല എന്നിരുന്നാലും ഡാറ്റ എച്ച്ഡിഎഫ്എസിലോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സിലോ ജിഎഫ്എസിലോ ആണെങ്കിൽ അത് ഗൂഗിൾ ഫയൽ സിസ്റ്റമാണെങ്കിൽ ഇത് ഈ ഡാറ്റാ വലുപ്പമായിരിക്കണം അല്ലെങ്കിൽ സ്റ്റോറേജ് ബജറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ വലിയ ഡാറ്റാ സെറ്റുമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റോറേജ് ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഡാറ്റ സെറ്റുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എത്ര സ്റ്റോറേജ് ആവശ്യമാണ് ഇപ്പോൾ മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്ൽ വളരെ നേരായ ഒരു പ്രശ്നം നമുക്ക് വീണ്ടും കാണാം നമ്മൾക്ക് ഈ മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക് ഉണ്ടോ എന്ന് നോക്കാം പ്രശ്നത്തിന്റെ ഈ ലാളിത്യം കാരണം നമ്മൾ വീണ്ടും നേരിട്ട് വിലമതിക്കില്ല എന്നാൽ മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക് മനസിലാക്കാൻ ഇത് നല്ലതായിരിക്കാം ഏത് ഭാഷയിലും സ്യുഡോ കോഡുകൾ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് MapReduce ലെ ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി കണക്കാക്കുക സിസ്റ്റത്തിലേക്ക് ഒരു കൂട്ടം സംഖ്യകൾ പമ്പ് ചെയ്യുന്നു ഇത് കീബോർഡിൽ നിന്നോ മറ്റോ നിന്നുള്ള നേരിട്ടുള്ള ഇൻപുട്ടായിരിക്കാം അതിനാൽ ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സാധാരണ കേസിൽ ഞാൻ ഒരു പൂർണ്ണസംഖ്യ A ആയി സജ്ജീകരിച്ചിരിക്കുന്നു 10 20 30 40 50 ഒരു കൂട്ടം സംഖ്യകൾ ഉള്ളതിനാൽ ഒരു ശരാശരി നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു അർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇത് സംഗ്രഹിച്ച് കാർഡിനാലിറ്റി പ്രകാരം വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പൂർണ്ണമായും 5 കൊണ്ട് ഹരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തുചെയ്യും മൂന്ന് മാപ്പർ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നുവെന്ന് മാസ്റ്റർ നോഡ് പറയുന്നു നമ്മൾ 3 അക്കങ്ങളായി കണക്കാക്കുന്ന മാപ്പർ നോഡുകളും ഒരു റിഡ്യൂസർ 1 നമ്പറും പറയുന്നു ഈ മാപ്പറിനായി ഒരു മാസ്റ്റർ നോഡിൽ എന്തുചെയ്യും ഇത് M1 M2 M 3 എന്ന് വിഭജിക്കുന്നു 3 മാപ്പർ നോഡ് ഈ ഡാറ്റയുടെ ഒരു ഭാഗം അത് ആദ്യത്തേതിന് 10 20 നൽകുന്നുവെന്ന് പറയുന്നു 30 40 50 ഓരോ മാപ്പറും കാര്യങ്ങൾ ഭാഗികമായി കണക്കാക്കുന്നു ഇത് ഈ രണ്ട് കാര്യങ്ങളുടെ ശരാശരി ചെയ്യുന്നു ഇത് വരുന്ന ഒന്നാണ് എനിക്ക് ശരാശരി പറയാനും എണ്ണാനും കഴിയും ആദ്യത്തേത് 15 2 അപ്പോൾ ഇത് 35 കാർഡിനാലിറ്റികൾ 2 ഉം ഇത് 50 ഉം ആണ് 1 മറ്റൊരു അർത്ഥത്തിൽ താൽക്കാലിക ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ സ്റ്റോർ 15 ആണ് 2 35 2 അടിസ്ഥാനപരമായി മാപ്പറിന്റെ ഔട്ട്പുട്ട് എന്താണ് ഇത് കംബൈനർ ചെയ്യുന്നു ഇത് നേടാൻ ആഗ്രഹിക്കുന്ന മാപ്പ് ഫംഗ്ഷനുകളാണ് കുറയ്ക്കുക എന്നത് പ്രാഥമികമായി ഒരു റിഡ്യൂസർ ഉണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും എടുക്കുന്നു മാത്രമല്ല ഇത് കാര്യങ്ങളുടെ ശരാശരിയോ അതിലധികമോ ചെയ്യുന്നു മറ്റൊരു അർത്ഥത്തിൽ ഇത് പറയുന്നത് 15 സ്റ്റാർ 2 ഇവിടെ 35 സ്റ്റാർ 2 ഉം 50 സ്റ്റാർ 1 മറ്റൊരു അർത്ഥത്തിൽ സിഗ്മ തുക 150 ആണ് സിഗ്മയുടെ എണ്ണം 5 ആണ് 150 ബൈ 5 എന്നത് 30 ആണെന്ന് പറയുന്നു അടിസ്ഥാനപരമായി എന്താണ് 15 സ്റ്റാർ 2 പ്ലസ് 35 സ്റ്റാർ 2 അത് കൃത്യമായി ചെയ്യുന്നു അതിനാൽ പ്രശ്നം വളരെ ലളിതവുമാണ് നിങ്ങൾക്ക് അത് കണ്ടെത്താനാകില്ല എന്താണ് ഇവിടെ വലിയ കാര്യം ഒരു സ്ട്രീം ആയി വരുന്ന കാര്യങ്ങളുടെ എണ്ണം വളരെ ഉയർന്നതാണെങ്കിൽ എനിക്ക് അടിസ്ഥാനപരമായി ഒരു സമാന്തര കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇവ സമാന്തരമായി പ്രോസസ്സ് ചെയ്യപ്പെടുന്നു ഇത് ഒരു പ്രത്യേക റിഡ്യൂസർ കുറയ്ക്കുന്നു നമ്മൾ അതിനുള്ള കോഡ് എഴുതുകയാണെങ്കിൽ അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏത് ഭാഷയും ഉപയോഗിക്കാം ഇവിടെ നമ്മൾ പറയുന്നത് പൈത്തൺ അല്ലെങ്കിൽ പൈത്തൺ തരം ഭാഷയാണ് ഏതു ഭാഷയല്ല എന്നത് പ്രശ്നമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാതിനിധ്യം ഏതെങ്കിലും സ്യുഡോ കോഡും കാര്യങ്ങളും ഉപയോഗിക്കുക നിങ്ങൾക്ക് ആ മാപ്പർ ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ മാപ്പർ ഡോട്ട് പൈ എന്ന് പറയുക ഇത് പൈത്തൺ തരമാണ് സിൻടാക്സ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല മറിച്ച് നമ്മൾ ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഡെഫ് മാപ്പ് എന്നത് ഒന്ന് ഏറ്റവും കുറവാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് 0 മുതൽ l വരെ നീളമുള്ള i എന്നതിന് 0 ന് തുല്യമായ ഒരു തുക നമ്മൾ സമാരംഭിക്കുന്നു ആകെ തുക പ്ലസിന് തുല്യമാണ് ഓരോ മാപ്പറും ഇത് ചെയ്യുന്നു ഓരോ മാപ്പറും അത് ചെയ്യുന്നത് മാസ്റ്റർ നോഡിനായി അതിന് അനുവദിച്ച ഡാറ്റയുടെ ഒരു ഭാഗം അത് എടുക്കുന്നു തുടർന്ന് നമ്മളുടെ കേസുകളിൽ എത്ര ഡാറ്റയുണ്ട് മാപ്പർ 1 ന് 2 ഡാറ്റയുണ്ട് മാപ്പർ 2 ന് 2 ഡാറ്റ മാപ്പർ 3 ഉണ്ട് എം 3 ന് 1 ഡാറ്റയുണ്ട് ഇത് 2 ആണ് 2 വീതം ഓരോ മാപ്പറിനും നമ്മൾ ഇത് ചെയ്തു ഈ കേസിൽ l ന്റെ ദൈർഘ്യം അനുസരിച്ച് ശരാശരി തുക 2 ഇത് 2 ന്റെ നീളം കൊണ്ട് ഈ തുക പോലെയാകണം അല്ലെങ്കിൽ കൂടുതൽ കർശനമായി പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻറ് വിഭജനം കാരണം ഇത് നിലനിൽക്കും അല്ലാത്തപക്ഷം പൂർണ്ണസംഖ്യകൾ ഉണ്ടാകാം നമുക്ക് കുറച്ച് സ്റ്റാർ 1 0 നൽകാം l ന്റെ നീളം ഈ സാഹചര്യത്തിൽ 2 എന്നിട്ട് നമ്മൾ ഇത് ഔട്ട്പുട്ട് ചെയ്യുന്നു നമുക്ക് പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം ഇത് ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുക ഈ കമാൻഡ്അടിസ്ഥാനമാക്കി നിങ്ങൾ വ്യത്യസ്ത പ്രോഗ്രാമിംഗ് മാതൃകകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വ്യത്യസ്തമായിരിക്കും അതിനാൽ മാപ്പർ അടിസ്ഥാനപരമായി ഈ ഡാറ്റ പുറത്തുവിടുന്നു ഇത് ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ സംഭരിച്ചിരിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരോ മാപ്പറിനും നമ്മൾ അതിന്റെ മാസ്റ്റർ നോഡ് നിയുക്തമാക്കിയിരിക്കുന്ന ഡാറ്റയുടെ ഒരു ലിസ്റ്റ് വായിക്കുന്നു ചിലത് തുകയെ മൂല്യത്തിലേക്ക് സമാരംഭിക്കുന്നു തുടർന്ന് ഞാൻ എന്താണ് ലൂപ്പിൽ ചെയ്യുന്നതെന്ന് നമ്മൾ ചേർക്കുന്നു അതിൽ നിന്ന് ശരാശരി ഉണ്ടാക്കുന്ന തുക കണക്കാക്കുന്നത് ഇത് ഒന്നുമല്ല മറിച്ച് അതിനെ ഫ്ലോട്ട് ഡിവിഷനാക്കുക എന്നതാണ് അത് ലോക്കൽ ഫയൽ സിസ്റ്റങ്ങളിലേക്ക് ആ മൂല്യം പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു റിഡ്യൂസർ അത് റീഡ് ചെയ്യും ഇതാണ് വസ്തുവിന്റെ മാപ്പർ ഭാഗം റിഡ്യൂസർ ഭാഗം നോക്കിയാൽ നമുക്ക് ഡെഫ് കുറയ്ക്കുന്നു അത് റീഡ് ചെയ്യുന്നത് മാപ്പർ കാര്യങ്ങളിൽ ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ശരാശരി മൂല്യവും കാര്യത്തിന്റെ ദൈർഘ്യവും നൽകുന്നു ഇവിടെയും ആ പ്രത്യേക കാര്യത്തിന് തുല്യമായ തുക നമ്മൾ റീഡ് ചെയ്യുന്നു ഇവിടെ ഞാൻ 0 പരിധിയിലാണ് l ന്റെ നീളം നമ്മുടെ മുമ്പത്തെ കാര്യം നോക്കിയാൽ അത് ചെയ്യുന്നത് തന്നെയാണ് ഇത് എന്താണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ കണക്കാക്കാൻ ശ്രമിക്കുകയാണ് എണ്ണo എണ്ണവും പ്ലസ് നീളവും തുല്യമാണ് ഒടുവിൽ നമുക്ക് ശരാശരി ആണ് ലഭിക്കുന്നത് അത് ഫ്ലോട്ടിങ് തുക അതെ ഇത് ഗുണിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ടൈപ്പ്കാസ്റ്റും കണക്കാക്കാം തുടർന്ന് ശരാശരി അച്ചടിക്കാം ഒരു റിഡ്യൂസർ മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഈ ലോക്കൽ ഫയൽ സിസ്റ്റം എടുക്കുകയാണ് റിഡ്യൂസർ ചെയ്യുന്നത് ഇത് എല്ലാ മൂല്യങ്ങളും എല്ലാ ഡാറ്റയും എടുക്കുന്നു ഇത് ഓരോ മാപ്പറിൽ നിന്നും ആ ഔട്ട്പുട്ട് സംഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ 3 ഉണ്ട് ഇത് 15 മുതൽ 2 വരെ വരുന്നു പ്ലസ് 35 മുതൽ 2 വരെ പ്ലസ് 50 മുതൽ 1 വരെ എണ്ണത്താൽ വിഭജിച്ചിരിക്കുന്നു അത് ഇവിടെ 2 പ്ലസ് 2 പ്ലസ് 1 ആണ് ഇത് ശരാശരി മൂല്യം കണക്കാക്കുന്നു തുടർന്ന് ഇത് വീണ്ടും ശരാശരി മൂല്യം ഗൂഗിൾ ഫയൽ സിസ്റ്റത്തിലേക്കോ ഹഡൂപ്പ് ഫയൽ സിസ്റ്റത്തിലേക്കോ എഴുതുന്നു ഇവിടെ ഇത് വീണ്ടും ലളിതമായ ഒരു കാര്യമായിരിക്കാമെങ്കിലും എനിക്ക് ഒരു പ്രശ്നം വിഭജിക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണുന്നു ഇന്ഹരന്റ പാരലൽലിസം ഉള്ളതിനാ ഒരു ശരാശരി ഡാറ്റ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു ഡാറ്റ എടുത്തു മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമ്മൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു ഒരു വലിയ അളവിലുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാസ്റ്റർ നോഡ് അതനുസരിച്ച് വിഭജിക്കുകയും ഭാഗിക കണക്കുകൂട്ടൽ നടത്തുകയും റിഡ്യൂസർ അത് റീഡ് ചെയ്യുകയും അന്തിമ കണക്കുകൂട്ടൽ നടത്തുകയും ചെയ്യുന്നു ഇത് വീണ്ടും ഒരു മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്കിന്റെ ലളിതമായ ഉദാഹരണമാണ് അടുത്തതായി നമ്മൾ മറ്റൊരു പ്രശ്നം കാണുന്നു ഓർഗനൈസേഷൻ എക്സ്വൈസെഡിന്റെ ആകെ ശരാശരി ശമ്പളം കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു MapReduce ഉപയോഗിച്ച് ലിംഗഭേദം അനുസരിച്ച് ഇൻപുട്ട് എന്നത് പേര് ലിംഗഭേദം ശമ്പളം എന്നിവയാണ് ഈ സാഹചര്യത്തിൽ പേര് ജോൺ എന്നും ലിംഗഭേദം എം അല്ലെങ്കിൽ പുരുഷൻ എന്നും ശമ്പളം 10000 യൂണിറ്റ് അല്ലെങ്കിൽ 10000 ഡോളർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുക അടുത്തത് മാർത്തയാണ് ലിംഗഭേദം എഫ് ശമ്പളം 15000 നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ലിംഗഭേദം പോലെ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ആകെ ശരാശരി ശമ്പളം എത്രയാണെന്ന് പുരുഷനും സ്ത്രീയ്ക്കും എന്ന് എന്തായാലും കാർഡിനാലിറ്റി കൊണ്ട് ഹരിച്ചാൽ ആകെ കാര്യങ്ങളുടെ ശരാശരി ശമ്പളമായിരിക്കും ഔട്ട്പുട്ട് ആ രൂപത്തിൽ സമാനമായിരിക്കും ഈ പ്രത്യേക പ്രശ്നം പരിശോധിക്കാൻ മാപ്പ് റെഡ്യൂസ് പ്രശ്നം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് അത് നോക്കാം നമ്മൾക്ക് എന്താണ് ഉള്ളത് നമ്മൾക്ക് ഇതുപോലെയാണ് പേര് ലിംഗഭേദം ശമ്പളം ഇതാണ് ട്യൂപ്പിൾ മാപ്പ് ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇൻപുട്ട് ഡാറ്റ ഉണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്നു ഇൻപുട്ട് ഡാറ്റ സെറ്റിന്റെ വ്യത്യസ്ത സെറ്റ് ഉണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ലിംഗഭേദം സംബന്ധിച്ച് നമ്മളെ അലട്ടാത്തതിനാൽ മാത്രം എക്സ്ട്രാക്റ്റുചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വ്യക്തിയുടെ പേരിനെക്കുറിച്ച് വിഷമിക്കുന്നു അല്ലെങ്കിൽ ശമ്പളത്തിൽ ആവശ്യമില്ല അവിടെ നിന്ന് കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ എം ശമ്പളം പറയുന്നു അതാതുതന്നെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരു കീ മൂല്യ ജോഡി നേടാനാകും കീ ഇതാണ് ആണോ പെണ്ണോ മൂല്യമോ അല്ലെങ്കിൽ നമുക്ക് രണ്ട് തരം നിഘണ്ടു ഘടനയുണ്ടെന്ന് പറയാം അത് ഒരു പ്രധാന മൂല്യ ജോഡിയുള്ളതും തുടർന്ന് പറയുന്നതും ആണ് ഇത് ഡിക്റ്റ് 1 ഡിക്റ്റ് 2 ഈ രണ്ട് തരം കീ വാല്യു ജോഡി എന്നിവയാണെന്നും ഓരോ 1 നും എനിക്ക് ഡിക്റ്റ് 1 ഉണ്ടായിരിക്കാമെന്നും മറ്റേതിന് ശരാശരി ആകാമെന്നും ഡിക്റ്റ് 2 ഐഡി ആയിരിക്കാം ചിലപ്പോൾ ഈ കേസിൽ ഐഡി പുരുഷനോ സ്ത്രീയോ ആണ് തുടർന്ന് ആകെ അല്ലെങ്കിൽ ശരാശരി ശമ്പളം നോക്കുക ഒരു നിഘണ്ടു ഘടനയുണ്ടെന്നും റിഡ്യൂസർ അടിസ്ഥാനപരമായി ഈ കാര്യം ചെയ്യുന്നുവെന്നും നമ്മൾ കരുതുന്ന രണ്ട് വെവ്വേറെ മൊത്തം കണക്കുകൂട്ടുക ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എന്താണ് പ്രശ്നം നോക്കാം എനിക്ക് ഒരു കൂട്ടം പേര് ലിംഗഭേദം ശമ്പളം എന്നിവയുണ്ട് എല്ലാ ടോപ്പിളിൽ നിന്നും ആ ലിംഗവും ശമ്പളവും വേർതിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒന്നിലധികം മാപ്പർ ഉണ്ടെങ്കിൽ ഞാൻ അവ എക്സ്ട്രാക്റ്റുചെയ്ത് ഒരു പ്രത്യേക രണ്ട് തരം നിഘണ്ടു തരമായി ഉപേക്ഷിക്കുന്നു രണ്ട് തരം കാര്യം അതിലൊന്ന് എം എഫ് റിഡ്യൂസർ ഭാഗം എന്നിവയ്ക്കൊപ്പം നമുക്കുള്ളത് വസ്തുക്കളുടെ ആകെത്തുകയും ശരാശരി ശമ്പളവും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യവും നമ്മൾ കണക്കാക്കുന്നു നമ്മൾ വീണ്ടും ഒരു മാപ്പർ ഡോട്ട് പൈ അല്ലെങ്കിൽ മാപ്പർ ഡോട്ട് ചില പൈത്തൺ തരം കോഡായി കാണുന്നു വീണ്ടും ഇത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് അനുയോജ്യമായ ഏത് കോഡിംഗ് ഭാഷയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്യുന്നതെന്തും ആയിരിക്കില്ല യഥാർത്ഥ പൈത്തൺ കാര്യവുമായി ബന്ധപ്പെട്ട് ചില സിൻടാക്സ് പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ ഇത് പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കാൻ നിങ്ങൾ ആശയപരമായി ആഗ്രഹിക്കുന്നില്ല തുടർന്ന് ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സിൻടാക്സ് പിന്തുടരേണ്ടതുണ്ട് syz dot std in ലെ ഒരു വരിയുടെ കാര്യമാണിത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് കോമ ഉപയോഗിച്ച് വേർതിരിച്ചതായി നമ്മൾ പരിഗണിക്കുന്നു ക്ഷമിക്കണം അത് കോമ ആയിരിക്കണം ഞാൻ ഇപ്പോൾ 0 വരിക്ക് തുല്യമായ പേര് വേർതിരിക്കുന്നു ശമ്പളം പ്രതിനിധീകരിക്കുന്നത് ഇതാണ് വരി 2 സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാദേശിക ഫയൽ സിസ്റ്റത്തിലേക്ക് ഡാറ്റ മാപ്പർ ഘട്ടം പുറത്തുവിടുന്നു നമ്മൾ പ്രിന്റ് കോമ d ശതമാനം നിലനിർത്തുന്നു പിന്നെ അപ്പോൾ നമ്മൾ എന്തുചെയ്യും ലിംഗവും ശമ്പളവും മറ്റൊരു തരത്തിൽ ഈ സിൻടാക്സ് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ എന്താണ് ശമ്പളത്തിലെ ലിംഗഭേദം കാര്യത്തിലേക്കോ എം ശമ്പള ഭാഗത്തിലേക്കോ വലിക്കുന്നത് നിങ്ങൾ കാണുന്നതുപോലെ ഈ M ശമ്പള ഭാഗം എന്നിവ സൃഷ്ടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം എം അല്ലെങ്കിൽ എഫ് ശമ്പള ഭാഗം എന്നിവയാണ് റിഡ്യൂസർ ഘട്ടത്തിൽ നമ്മൾ ആ ഇറക്കുമതി ചെയ്യുന്നത് ആണ് അത് നിർവ്വചിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ sys ലെ ലൈനിനായി നിഘണ്ടു ക്ലാസായ ഈ ഡിക്റ്റ് ആർഗിനെ വിളിക്കുക അതിനാൽ ഇത് എന്താണ് റീഡ് ചെയ്യുന്നത് ലിംഗഭേദം അല്ലെങ്കിൽ കാര്യങ്ങളുടെ മൂല്യം അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ലിംഗഭേദം ശമ്പള മൂല്യങ്ങൾ എന്നിവയുമായി ലിംഗഭേദം അല്ലെങ്കിൽ ആ പ്രധാന മൂല്യം ഭയപ്പെടുന്നുവെന്ന് അടിസ്ഥാനപരമായി റീഡ് ചെയ്യുന്നത് കാര്യങ്ങളിൽ നമ്മൾക്ക് ആ പേര് ഇല്ല കാരണം ഈ പ്രത്യേക ചോദ്യത്തിന് കാര്യത്തിന്റെ പേര് ആവശ്യമില്ല 1 ന്റെ വരി ഇത് ഇതിനകം നിലവിലുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ റീഡ് ചെയ്യുന്നത് ഓർഗ് ഓർഡർ ചെയ്യുക നമ്മളുടെ ലക്ഷ്യം എന്താണ് അടിസ്ഥാനപരമായി ഒരേ ലിംഗഭേദത്തിന് ശമ്പള മൂല്യങ്ങൾ ചേർക്കുന്നത് തുടരുക വഴി ശമ്പളം കൂട്ടുക ഇതിനകം അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ എന്റെ നിലവിലുള്ള റിഡ്യൂസർ നിഘണ്ടു എണ്ണൽ ഒരു പ്രധാന മൂല്യ ജോഡി ആണ് ലിംഗഭേദം അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ ഉണ്ടെന്ന് ഇതിനകം തന്നെ കീ ഉണ്ടെങ്കിൽ എനിക്ക് ലഭിക്കുമ്പോഴെല്ലാം ഞാൻ അവ ചേർക്കുന്നു അത് അവിടെ ഇല്ലെങ്കിൽ അത് മറ്റൊന്നാണ് അതിനർത്ഥം ഇത് അടിസ്ഥാനപരമായി ഓർഗനൈസേഷൻ കാര്യമാണ് ഒരു ശൂന്യമായ കാര്യം ഉപയോഗിച്ച് ആരംഭിക്കുക ആദ്യമായി അത് വരുന്നു അതിനർത്ഥം ഒരു ശൂന്യമായ കാര്യമുണ്ട് അത് ശൂന്യമാണെങ്കിൽ അത് അടിസ്ഥാനപരമായി സമാരംഭിക്കുന്നു എന്നിട്ട് ശമ്പളം കൂട്ടുക അതിനർത്ഥം ഡിക്റ്റ് ഓർഗ് ഡോട്ട് കീകളുടെ ശമ്പളത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത് ശമ്പള ശരാശരി ഡിക്റ്റ് ഓർഗിന്റെ തുകയ്ക്ക് തുല്യമാണ് ലിംഗഭേദം ഡിക്റ്റ് ഓർഗ് ലിംഗത്തിന്റെ നീളം കൊണ്ട് ഹരിക്കുന്നു ഇത് നേരായ കാര്യങ്ങളാൽ വിഭജിക്കപ്പെടുകയും മൊത്തം ശമ്പളം ഡിക്റ്റ് ഓർഗ് ലിംഗഭേദത്തിന് തുല്യമാവുകയും ചെയ്യുന്നു തുടർന്ന് നമ്മൾ അടിസ്ഥാനപരമായി Google അല്ലെങ്കിൽ GFA അല്ലെങ്കിൽ HDFS ഫയൽ സിസ്റ്റത്തിലേക്ക് മറ്റ് കാര്യങ്ങൾ എഴുതുന്നു ഒരു കോമ അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ച് കേസ് വേർതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒരു സംഖ്യ ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാം അടിസ്ഥാനമാക്കി ഡി നമ്മൾക്ക് ഇത് ജെൻഡർ ടോട്ടൽ ശമ്പള ശരാശരി എന്നിങ്ങനെ ഉണ്ട് അവസാനത്തെ ഉപരിതലത്തിൽ നമ്മൾ ചെയ്യുന്നത് അതാണ് വേഗത്തിൽ നോക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാപ്പിംഗ് ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾക്ക് പേര് ലിംഗഭേദം ശമ്പളം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളുടെ ലക്ഷ്യം മാപ്പിംഗ് പ്രവർത്തനങ്ങളാണ് ഇത് കാണുക മാപ്പ് എല്ലാം ഇത് വ്യക്തിഗതമാണോ എന്ന് വ്യക്തിഗതമായി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഏത് ലിംഗഭേദം കണ്ടെത്തുകയും ഈ ശമ്പളം ആ ജി എം അല്ലെങ്കിൽ എഫ് ശമ്പളം എന്നിവയ്ക്കൊപ്പം നിലനിർത്തുകയും കണ്ടെത്തൽ അടിസ്ഥാനപരമായി ചെയ്യും ലിംഗഭേദവും ശമ്പളവും റിഡ്യൂസറും അടിസ്ഥാനപരമായി ആ ഇന്റർമീഡിയറ്റ് ഫലം എക്സ്ട്രാക്റ്റുചെയ്യുകയും ശരാശരിയും മൊത്തവും കണക്കാക്കുകയും ചെയ്യും ഇവിടെ ആ പ്രവർത്തനം ഉണ്ട് ഇതൊരു സാധാരണ പൈത്തൺ തരമാണ് ഞാൻ പൈത്തണിനെ കർശനമായി പറയുന്നില്ല കാരണം ചില സിൻടാക്സ് പ്രശ്നങ്ങളുണ്ടാകാം എന്നാൽ നിങ്ങൾക്ക് എന്തും നടപ്പിലാക്കാൻ കഴിയും ആശയം ഞാൻ പ്രശ്നത്തെ ചെറിയ സമാന്തര കാര്യങ്ങളായി മാപ്പർ ഉപയോഗിച്ച് വിഭജിക്കുകയും രണ്ടാം ഘട്ടത്തിൽ റിഡ്യൂസർ മറ്റൊരു കീ മൂല്യ ജോഡിയിലേക്ക് ഇട്ടു ഇൻപുട്ട് സെറ്റിൽ നിന്നുള്ള പ്രധാന മൂല്യം ഒരു കൂട്ടം കീ മൂല്യ ജോഡികളിലേക്ക് റിഡ്യൂസർ ആ കീ മൂല്യ ജോഡി എടുത്ത് ഒരു ഫംഗ്ഷൻ ഇടുന്നു ഈ സാഹചര്യത്തിൽ കാര്യങ്ങളുടെ ശരാശരി അല്ലെങ്കിൽ ആകെ മറ്റൊരു മൂല്യ മൂല്യ ജോഡികളിലേക്കും അവസാനമായി നൽകുന്നു ഇത് എച്ച്ഡിഎഫ്എസ് ജോഡിയിലേക്കോ ജിഎഫ്എസ് ഫയൽ സിസ്റ്റത്തിലേക്കോ പോകുന്നു ഇന്നത്തെ കാര്യങ്ങളിൽ നമ്മൾ നോക്കാൻ ശ്രമിച്ചത് ഈ മാപ്പ് റിഡ്യൂസ് ഫംഗ്ഷനുകൾ ലളിതമായ പ്രശ്നങ്ങൾ പറയുന്നു നമുക്ക് അത് എങ്ങനെ മാപ്പിൽ ഇടാനും കാര്യങ്ങൾ കുറയ്ക്കാനും കഴിയും എന്നതാണ് ഈ മാപ്പറുകളുടെ എണ്ണം ലഭ്യമാണ് അടിസ്ഥാനപരമായി റിസോഴ്സിന്റെ ലഭ്യതയും മാസ്റ്റർ നോഡുകൾ അതിനെ എങ്ങനെ വിഭജിക്കുന്നുവെന്നതും പദം അടിസ്ഥാനമാക്കി റിഡ്യൂസർമാരുടെ എണ്ണവും ആണ് ഏത് തരം ഫംഗ്ഷണൽ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ അവ മാസ്റ്റർ നോഡ് ഉണ്ട് ഇത് M മാപ്പറിന്റെ M നമ്പറായും നിരവധി റിഡ്യൂസറായും വിഭജിക്കുന്നു പ്രശ്നത്തിന്റെ പ്രവർത്തനക്ഷമത രണ്ട് ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രശ്നം ഇത്തരത്തിലുള്ള മാതൃകയുടെ സമാന്തരമായി നടപ്പിലാക്കാൻ നമ്മൾക്ക് കഴിയും